ഡൈവെർജൻസ് തിയറത്തിന്റെയും സ്റ്റോക്സ് തിയറത്തിന്റെയും പ്രായോഗിക ഉദാഹരണങ്ങൾ നാം ഡൈവർജൻസ് തിയറത്തെക്കുറിച്ചും സ്റ്റോക്സ് തിയറത്തെക്കുറിച്ചും പഠിച്ചു ഇത് ഒരു വെക്റ്റർ അളവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ കൂടുതൽ നന്നായി ഇത് വെക്റ്റർ ന്റെ സർഫസ് ഇന്റഗ്രലിന്റെ വോളിയം ഇൻറഗ്രൽ ആണ് സ്റ്റോക്സ് തിയറം ഒരു വെക്റ്റർ അളവിന്റെ കേളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ ലൈൻ ഇന്റഗ്രലിന്റെ ഒരു ഏരിയായിലുള്ള ഇന്റഗ്രൽ ഒരു ക്ളോസ് കർവിലുള്ളത് ആണ് കൂടാതെ ഇത് ഒരു ക്ളോസ്ഡ് വ്യാപ്തം അല്ലെങ്കിൽ ഒരു ക്ളോസ്ഡ് തലത്തിൽ ഉള്ളത് ആണ് ഈ ലക്ച്ചറിൽ നിങ്ങൾക്ക് ഈ വസ്തുതകളുമായി പരിചിതമാകുവാൻ വേണ്ടി നാം രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പരിശോധിക്കുവാൻ പോകുന്നു അപ്പോൾ നമുക്കാദ്യം ഡൈവേർജെൻസ് തിയറം എടുക്കാം ഞാൻ കാർട്ടീഷ്യൻ കോ ഓർഡിനേറ്റ്കളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് അതിനു ശേഷം മറ്റു കോ ഓർഡിനേറ്റ് സിസ്റ്റംങ്ങളിലെ പ്രോബ്ലെങ്ങൾ എടുക്കാം നമുക്ക് ഒരു വെക്ടർ ഫീൽഡ് A എടുക്കാം ഇത് തന്നിട്ടുള്ളത് A xy z എന്നത് 2 x x പ്ലസ് 2 y y പ്ലസ് 3 z z ന് തുല്യമായാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും തന്നിട്ടുള്ള ഒരു പോയിന്റിൽ ഇതിന്റെ ഘടകങ്ങൾ എല്ലാ മൂന്നു ഘടകങ്ങളും xy z എന്നിവയാണ് നമുക്കിവിടെയുള്ള ഒരു പോയിന്റ് നോക്കാം ഇതിന് xy ദിശകളിൽ ഒരു ഘടകം ഉണ്ട് xദിശയിലും y ദിശയിലും ഉള്ളവ തുല്യമാണ് കൂടാതെ z ദിശയിൽ ഒരു ഘടകം ഉണ്ട് അത് മറ്റ് മൂന്നു ഘടകങ്ങളുടെ ഒന്നര ഇരട്ടിയാണ് അപ്പോൾ ഈ ഫീൽഡ് നിങ്ങൾക്ക് കാണാൻ കഴിയുംഞാൻ ഈ വെക്ടർ ഇത് പോലെ ഉണ്ടാക്കാം നിങ്ങൾ കൂടുതൽ ദൂരേക്ക് പോകുമ്പോൾ ഇത് വലുതായി വലുതായി വരും അപ്പോൾ നിങ്ങൾക്കിത് എല്ലാ വ്യത്യസ്ത പോയിന്റുകളിലും ഉണ്ടാക്കാം നിങ്ങൾ നെഗറ്റീവ് വശത്താണെങ്കിൽ നെഗറ്റീവ് ഇത് z ഘടകം പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഇത് ഒരു മാതിരി ഡൈവേർജിങ്ങോ കോൺവെർജിങ്ങോ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്കിപ്പോൾ ഇതിൽ ഡൈവേർജെൻസ് തിയറം പ്രയോഗിക്കാം അപ്പോൾ നാം കാണിക്കാൻ ആഗ്രഹിക്കുന്നത് A ഡോട്ട് d s എന്നത് A യുടെ ഡൈവേർജെൻസ് ഡോട്ട് വോളിയം എലമെന്റ് ഇന്റഗ്രൽ എന്നാണ് സൌകര്യത്തിനു വേണ്ടി ഞാൻ ഒറിജിൻ കേന്ദ്രമായ 1 വലിപ്പം ഉള്ള ഒരു ബോക്സ് എടുക്കുന്നു ഇത് ഒരു സെന്റർ ആണ് അപ്പോൾ ഇത് L വലിപ്പമുള്ള ഒരു ബോക്സ് ആണ് വലിപ്പം പ്രശ്നമല്ല L വലിപ്പമുള്ള ഒരു ക്യൂബ് അപ്പോൾ ഇതിന്റെ മുൻപിലത്തെ വശം ഇത് xദിശയാണ് ഇത് y ദിശയാണ് ഇത് z ദിശയാണ് മുൻ വശം ഒറിജിനിൽ നിന്നും L ഭാഗം രണ്ട് അകലെയാണ് പുറകുവശവും L ഭാഗം രണ്ട് അകലെയാണ് മുൻവശം ഇവിടെ y ദിശയിലാണ് L ഭാഗം രണ്ടിലുമാണ് പുറകുവശം മൈനസ് L ഭാഗം രണ്ടിലാണ് അത് പോലെ z വശത്തു താഴത്തെ വശം മൈനസ് L ഭാഗം രണ്ടിലും മുകളിലത്തെ വശം പ്ലസ് L ഭാഗം രണ്ടിലുമാണ് നമുക്കാദ്യം ഇന്റഗ്രൽ A ഡോട്ട് d s കണക്കാക്കാം ഇപ്പോൾ നാം ഡൈവേർജെൻസ് തിയറത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ d s വോളിയുമിന് പുറത്തേക്ക് ചൂണ്ടുന്നു എന്നോർമ്മിക്കുക അതിനാൽ മുൻവശം കറുത്ത നിറത്തിൽ കാണിച്ചിരിക്കുന്നുd s xയൂണിറ്റ് വെക്ടർ ദിശയിലാണ് പോകുന്നത് അല്ലെങ്കിൽ പുറകു വശത്ത് ഇത് മൈനസ് xദിശയിൽ പോകുന്നു കൂടാതെ xദിശയിൽ d s എന്നത് d y d z x ആണ് എന്നു നാം കണ്ടു അപ്പോൾ പുറകു വശത്ത് ഇത് d y d z x ഒരു മൈനസ് ചിഹ്നത്തോട് കൂടി ആയിരിക്കും അപ്പോൾ ഈ രണ്ടു സർഫേസുകളിലും നമുക്ക് A ഡോട്ട് d s കണക്കാക്കാംA എന്നത് x ദിശയിൽ രണ്ടു x പ്ലസ് y ദിശയിൽ രണ്ടു y മൈനസ് മൂന്നു z z ദിശയിൽ ഡോട്ട് d s എന്നത് d y d z x ദിശയിലായിരിക്കും മുൻപിലത്തെ സർഫേസിൽ x എന്നത് L ഭാഗം രണ്ട് പ്ലസ് രണ്ട് x x പ്ലസ് രണ്ട് y y മൈനസ് മൂന്ന് z z d y d z ഗുണം മൈനസ് x x സമം മൈനസ് L ഭാഗം രണ്ടിൽ അതായത് പിറകിലത്തെ സർഫേസിൽ അപ്പോൾ നിങ്ങൾ ഡോട്ട് പ്രോഡക്ട് എടുക്കുമ്പോൾ ഈ ടേമുകൾക്ക് കാര്യമായ സംഭാവന നല്കാനാകില്ല അതിനാൽ എനിക്ക് അവയെക്കുറിച്ച് ഖേദമില്ല x എന്നത് L ഭാഗം രണ്ട് ആണ് നമുക്ക് കിട്ടുവാൻ പോകുന്നത് രണ്ട് ഗുണം L ഭാഗം രണ്ട് d y d z ആണ് ഇത് സർഫേസിന്റെ ഏരിയ പ്ലസ് രണ്ട് ഗുണം മൈനസ് L ഭാഗം രണ്ട് അല്ലാതൊന്നുമല്ല എന്തെന്നാൽ കറുത്ത സർഫേസ് x എന്നത് മൈനസ് L ഭാഗം രണ്ടും എക്സും മൈനസ് എക്സും അങ്ങനെ നമുക്ക് മറ്റൊരു മൈനസ് ചിഹ്നം കൂടി കിട്ടുന്നു ഇന്റഗ്രൽ d y d z അതും ഒരു ഏരിയ ആണ് ഇത് മുൻവശത്തെ ഏരിയ ആണ് ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാം ഇവ രണ്ടും ക്യാൻസൽ ചെയ്യപ്പെടുംഇവ രണ്ടും ക്യാൻസൽ ചെയ്യപ്പെടും അതിനു ശേഷം നിങ്ങൾക്ക് രണ്ടു L ക്യൂബ്ഡ് എന്ന് കിട്ടും അപ്പോൾ മുൻപിലെ സർഫേസിലും പുറകിലെ സർഫേസിലും ഏരിയ ഇന്റഗ്രൽ നിങ്ങൾക്ക് രണ്ടു L ക്യൂബ്ഡ് നൽകും നമുക്ക് y ദിശയിൽ നോക്കാം y ദിശയിൽ നിങ്ങൾക്ക് മുൻപിലെയും പിറകിലെയും സർഫേസുകളിലെ ഇന്റഗ്രൽ A ഡോട്ട് d s എന്നിവ ഉണ്ട് ഇത് y സമം L ഭാഗം രണ്ടിൽ ഇന്റഗ്രൽ രണ്ട് y d x d z ആയിരിക്കും ഇപ്പോൾ ഇത് പ്ലസ്സിന് പകരം മൈനസ് ഇടുന്നു എന്തെന്നാൽ ഇവിടെയുള്ള യൂണിറ്റ് വെക്ടർ പ്രോഡക്ട് പുറകിലെ സർഫേസിന് y ഗുണം മൈനസ് y ആകുന്നു അപ്പോൾ y സമം മൈനസ് L ഭാഗം രണ്ടിൽ ഇതാണ് ഡോട്ട് പ്രോഡക്ട് അതിനാൽ ഇത് ഇവിടെ നിങ്ങൾക്ക് മൈനസ് ചിഹ്നം നൽകി ഇത് വീണ്ടും രണ്ട് L ക്യൂബ്ഡ് സംഭാവന ചെയ്യും അപ്പോൾ അവസാനമായി എങ്ങിനെയാണ് z സർഫേസിന്റെ A ഡോട്ട് d s അത് മൈനസ് മൂന്ന് z അല്ലതൊന്നുമല്ല കൂടാതെ നിങ്ങൾക്ക് d xd y യും ഉണ്ട് അപ്പോൾ ഇത് z സമം L ഭാഗം രണ്ടിൽ z ഡോട്ട് z മൈനസ് മൂന്ന് z d y z സമം മൈനസ് L ഭാഗം രണ്ടിൽ ഇത് z ഡോട്ട് z ആകും അപ്പോൾ ഇത് നിങ്ങൾക്കു നൽകുന്നത് മൂന്ന് ഗുണം L ഭാഗം രണ്ട് ഗുണം L സ്ക്വയർ ഗുണം രണ്ട് അതായത് മൂന്ന് L ക്യൂബ്ഡ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം മൂന്ന് ഫലങ്ങളും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് രണ്ട് L ക്യൂബ്ഡ് പ്ലസ് രണ്ട് L ക്യൂബ്ഡ് മൈനസ് മൂന്ന് L ക്യൂബ്ഡ് എന്ന് കിട്ടും അതായത് L ക്യൂബ്ഡ് കിട്ടും ഇത് ഇന്റഗ്രേഷൻ A ഡോട്ട് d s ന് സമമാണ് നമുക്കിപ്പോൾ ഡൈവർജൻസ് തിയറം ഉപയോഗിച്ച് ഇതേ ഉത്തരം തന്നെ ലഭിക്കുമോ എന്ന് നോക്കാം ഡൈവേർജെൻസ് തിയറം അനുസരിച്ച് A ഡോട്ട് ds എന്നത് ഡൈവേർജെൻസ് A യെ വോളിയമിന് മുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ആയിരിക്കും A എന്നത് x ദിശയിൽ രണ്ട് x പ്ലസ് y ദിശയിൽ രണ്ട് y ന്യൂനം z ദിശയിൽ മൂന്ന് z ഡൈവേർജെൻസ് A എന്നത് നിങ്ങൾക്ക് കാണാം പാർഷ്യൽ A പാർഷ്യൽ x പ്ലസ് പാർഷ്യൽ A പാർഷ്യൽ y പ്ലസ് പാർഷ്യൽ A പാർഷ്യൽ z സമം ഒന്ന് ആകും ഇത് കോൺസ്റ്റന്റ് ആണ് അതിനാൽ എനിക്കിത് വെളിയിൽ എടുക്കാം അപ്പോൾ ഇത് dV മാത്രമാകും അപ്പോൾ അത് ക്യൂബിന് മുകളിലുള്ള dV യുടെ വോളിയം ഇന്റഗ്രൽ ആണ് അതായത് L ക്യൂബ്ഡ് ഇത് എനിക്ക് അതെ ഉത്തരം നൽകുന്നു നിങ്ങൾക്ക് ഡൈവേർജെൻസ് തിയറത്തിന്റെ ശക്തി കാണുകയും ചെയ്യാം മറിച്ച് ഞാൻ A ഡോട്ട് d s കണക്കാക്കിയപ്പോൾ എനിക്ക് ആര് സർഫേസുകളിലും ഇന്റഗ്രേഷൻ ചെയ്യേണ്ടതായി വന്നു ഉത്തരം L ക്യൂബ്ഡ് എന്ന് ലഭിച്ചു ഡൈവേർജെൻസ് തിയറം ഉപയോഗിച്ച് എനിക്ക് ഈ ഉത്തരം രണ്ടോ മൂന്നോ വരകളിൽ ലഭിച്ചു ഇങ്ങനെയാണ് നിങ്ങൾക്ക് ശക്തിമത്തായ ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക അടുത്തതായി ഞാൻ വീണ്ടും ഡൈവേർജെൻസ് തിയറത്തിന്റെ ഒരു ഉദാഹരണം എടുക്കാം ഇവിടെ ഞാൻ A സമം x x പ്ലസ് y സ്ക്വയർ y പ്ലസ് x y z വീണ്ടും എനിക്ക് ഇന്റഗ്രൽ A ഡോട്ട് d s L വശമുള്ള ഒറിജിൻ കേന്ദ്രമായുള്ള ഒരു ക്യൂബിന്റെ മേൽ കണക്കാക്കണം അപ്പോൾ A ഡോട്ട് d സ് എന്നത് ഡൈവേർജെൻസ് തിയറം അനുസരിച്ച് ഡൈവേർജെൻസ് എd വി അല്ലാതൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് വളരെപ്പെട്ടെന്ന് കാണാവുന്നതുപോലെ ഡൈവേർജെൻസ് A എന്നത് x അടിസ്ഥാനമാക്കി x ഘടകത്തിന്റെ ഡെറിവേറ്റീവ് ഇത് എനിക്ക് ഒന്ന് നൽകുന്നു പ്ലസ് y അടിസ്ഥാനമാക്കി y ഘടകത്തിന്റെ ഡെറിവേറ്റീവ് ഇത് എനിക്ക് രണ്ട y നൽകുന്നു പ്ലസ് z അടിസ്ഥാനമാക്കി z ഘടകത്തിന്റെ ഡെറിവേറ്റീവ് അത് x y ആയതിനാൽ ഒന്നും സംഭാവന ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് d xd y d z ഉണ്ട് d x ഇന്റഗ്രൽ ഞാൻ അത് പ്രത്യേകമായി എഴുതാം d x ഇന്റഗ്രൽ മൈനസ് L2 മുതൽ പ്ലസ് L2 വരെ d y ഇന്റഗ്രൽ മൈനസ് L2 മുതൽ പ്ലസ് L2 വരെ d z ഇന്റഗ്രൽ മൈനസ് L2 മുതൽ പ്ലസ് L2 വരെ ആദ്യത്തെ ടേം ഒരു കോൺസ്റ്റന്റ് ആണ് അതിനാൽ ഉടനെ എനിക്ക് L കിട്ടുന്നു L ഉം L ഉം x y z എന്നിവയിൽ നിന്നുള്ള സംഭാവനകൾ അതിനാൽ എനിക്ക് ആദ്യ ടേമിൽ നിന്നും L ക്യൂബ്ഡ് കിട്ടുന്നു രണ്ടാമത്തെ ടേം x വീണ്ടും L നൽകുന്നു z വീണ്ടും L നൽകുന്നു y യുടെ ഇന്റെഗ്രേലിന്റെ കൂടെ രണ്ട് ഉള്ളതിനാൽ ഇതെനിക്ക് y സ്ക്വയർ2 മൈനസ് L2 മുതൽ L2 വരെ അത് L ക്യൂബ്ഡ് ആണ് ഈ ടേം അപ്രത്യക്ഷമാകുന്നു അപ്പോൾ ഇതാണ് ഉത്തരം അപ്പോൾ നമുക്ക് സ്പഷ്ടമായി സർഫേസ് ഇന്റഗ്രൽ മുഖാന്തിരം A ഡോട്ട് d s കണക്കാക്കി തിയറം പരിശോധിക്കാം ഞാൻ ഇത് കഴിഞ്ഞ ഉദാഹരണത്തിലെ പോലെ ഒറിജിൻ കേന്ദ്രമായ ഒരു ക്യൂബിന് മുകളിലാണ് ചെയ്യുന്നത് എന്നത് ഓർമ്മിക്കുക അപ്പോൾ എനിക്ക് x സമം L2 ഉണ്ട് പിറകിൽ x സമം മൈനസ് L2 ഉണ്ട് കൂടാതെ മുകളിലെ സർഫേസിൽ z താഴത്തെ സർഫേസ് മൈനസ് യൂണിറ്റ് വെക്ടർ ഇത് മൈനസ് L2 വിലും ഇത് L2 വിലും ആണ് അപ്പോൾഞാൻ x സമം L2 വിലെ A ഡോട്ട് d s എടുക്കുമ്പോൾ എനിക്ക് ലഭിക്കാൻ പോകുന്നത് L2 ഗുണം d y d z ആണ് എന്നതെന്നാൽ A സമം x ആണെന്ന് ഓർക്കുക അപ്പോൾ ഇത് L2 കൂടാതെ പിറകിൽ എനിക്ക് മൈനസ് L2 d y d z ലഭിക്കും അപ്പോൾ x ഡോട്ട് മൈനസ് x അത് ഈ ചിഹ്നത്തെ പ്ലസ് ആക്കും എനിക്കിപ്പോൾ ഇത് ഇവിടുന്ന് നീക്കാം അപ്പോൾ എനിക്ക് L2 ഗുണം L സ്ക്വയർ2 ഗുണം അതിനാൽ ഇത് എനിക്ക് L ക്യൂബ്ഡ് നൽകുന്നു അപ്പോൾ ഇതാണ് x ഭാഗം y ഭാഗം എങ്ങിനെയാണ് നമുക്കിത് നീലനിറത്തിൽ ചെയ്യാം y ഘടകം y സ്ക്വയർ ആണ് അതായത് A y y സ്ക്വയർ ആണ് അപ്പോൾ ഇന്റഗ്രൽ d s A y എന്നത് y സ്ക്വയർ d x d z y സമം L2 വിൽ മൈനസ് ഇന്റഗ്രൽ y സ്ക്വയർ d x d z y സമം മൈനസ് L2 വിൽ വീണ്ടും ഈ മൈനസ് ചിഹ്നം വരുന്നത് എന്തെന്നാൽ പിറകു വശത്ത് y സമം മൈനസ് L2 വിൽ യൂണിറ്റ് വെക്ടർ മൈനസ് y ദിശയിലാണ് ഉടനെ ഇത് പൂജ്യം ആണെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും മൂന്നാമത്തെ ടേം A z d s എനിക്ക് x y d x d y മൈനസ് L2 മുതൽ L2 വരെ z സമം L2 പ്ലസ് അതുപോലെയുള്ള ടേം z സമം മൈനസ് L2 വിൽ പക്ഷെ നിങ്ങൾ നോക്കൂ ഈ ഇന്റെഗ്രേലുകൾ x y ഇന്റെഗ്രേലുകൾ ഒറ്റയാണ് ഇന്റഗ്രേഷൻ നടത്തുന്നത് മൈനസ് L2 മുതൽ പ്ലസ് L2 വരെയാണ് അപ്പോൾ അവ പൂജ്യം നൽകുന്നു അപ്പോൾ A ഡോട്ട് d s എന്നത് L ക്യൂബ്ഡ് ആണെന്ന് ഉടനെ നിങ്ങൾക്ക് കാണാം ഇത് ഡൈവേർജെൻസ് തിയറത്തെ സ്ഥിരീകരിക്കുന്നു അടുത്തതായി ഞാൻ സ്റ്റോക്സ് തിയറത്തിന്റെ ഒരു ഉദാഹരണം എടുക്കുകയാണ് ഒരു വളരെ ലളിതമായ ഉദാഹരണം സ്റ്റോക്സ് തിയറം എന്താണ് പറയുന്നത് എന്ന് ഓർക്കുകഅത് പറയുന്നത് ഒരു വെക്ടർ ഫീൽഡ് A ഡോട്ട് d L ഒരു ക്ലോസ്ഡ് പാത്തിന് ചുറ്റും ഉണ്ടെങ്കിൽ അത് കേൾ A ഡോട്ട് d s ആയിരിക്കും എന്നാണ് അപ്പോൾ നമുക്ക് ഒരു വെക്ടർ ഫീൽഡ് A xy z എടുക്കാം വളരെ ലളിതമായ ഒന്ന് ഞാൻ ഇത് രണ്ട് y x എടുക്കുന്നു ഇത് എങ്ങിനെ കാണപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതിന്റെ ദിശ വരയ്ക്കുകയാണെങ്കിൽ അത് എല്ലായെപ്പോഴും x ദിശയിലായിരിക്കും ഏതൊരു പോയിന്റിലും ഇതിന്റെ അളവ് y ക്ക് അനുസരണം ആയിരിക്കും y കൂടുമ്പോൾ അളവും കൂടുന്നു നെഗറ്റീവ് y വശത്തും ഇത് പോലെയായിരിക്കും അപ്പോൾ ഈ പോയിന്റുകളെല്ലാം വലുതാകും എന്ന് നിങ്ങൾക്ക് കാണാം ഇത് y കോ ഓർഡിനേറ്റിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു കേൾ ന്റെ നിർവചനം അനുസരിച്ച് ഈ ഫീൽഡ് ചുരുണ്ടു വരുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പോലെ കേൾന്റെ ഒരു പരീക്ഷണമാണ് ഞാൻ ഈ ഫീൽഡിൽ ഒരു തടിക്കഷണം ഇട്ടാൽ ഈ ആരോകൾ ദ്രാവകത്തിന്റെ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക ഇത് ഈ വഴി തിരിയുന്നു എന്ന് നിങ്ങൾക്ക് കാണാം അപ്പോൾ ആ കേൾ നെഗറ്റീവ് z ദിശയിലായിരിക്കാൻ സാധിക്കുമോ ഇത് നിസ്സാരമല്ല നമുക്ക് ഒരു യൂണിറ്റ് വൃത്തം എടുത്ത് സ്റ്റോക്സ് തിയറം പരിശോധിക്കാം എന്നിട്ട് ഈ യൂണിറ്റ് വൃത്തത്തിൽ കൌണ്ടർ ക്ലോക്ക് വൈസായി ഇന്റഗ്രൽ കണക്കാക്കാം ഞാൻ യൂണിറ്റ് സർക്കിളിൽ ഇന്റഗ്രേഷൻ ചെയ്യുമെങ്കിൽ ഇത് A ഡോട്ട് d s ന്റെ കേളിന് തുല്യമായിരിക്കണം ഈ യൂണിറ്റ് വൃത്തത്തിന് ഇത് xy പ്ളേനി ലാകയാൽ ds എന്നത് z ദിശയിലായിരിക്കും അപ്പോൾ എനിക്ക് d x d y ലഭിക്കും ഞാൻ കൌണ്ടർ ക്ലോക്ക്വൈസ് ദിശയിൽ പോകുന്നത് കൊണ്ട് dl എന്നത് dl സമം d x x പ്ലസ് d y y ഇത് ഒരു യൂണിറ്റ് സർക്കിൾ ആകയാൽ എനിക്കിത് ഇങ്ങിനെയും എഴുതാം വളരെ ലളിതമായി നീളം r ഒന്ന് ആകയാൽ d ഫൈ ഫൈ ദിശയിൽ രണ്ടും ഒന്നിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് A യുടെ കേൾ കണക്കാക്കാം A എന്നത് 2 y x ആണ് A യുടെ കേൾ എന്നത് i j ആണ് ഞാൻ യൂണിറ്റ് വെക്റ്ററുകൾ xyz ഉപയോഗിക്കുന്നു പാർഷ്യൽ xപാർഷ്യൽ y പാർഷ്യൽ z x ദിശ എന്നത് y 0 0 ഇത് അതായത് x ഘടകം എനിക്ക് 0 നൽകുന്നു y ഘടകവും 0 നൽകുന്നു z ഘടകം മൈനസ് 2 നൽകുന്നു അതിനാൽ എയുടെ കേൾ 2z ആണ്അപ്പോൾ കേൾ A ഡോട്ട് ds നെ പ്പറ്റി എന്താണ് പറയാനുള്ളത് A യുടെ കേൾ കോൺസ്റ്റന്റ് ആകയാൽ എനിക്ക് 2 ൽ നിന്നും ഇത് പുറത്തെടുക്കാം എനിക്ക് കെ z യൂണിറ്റ് വെക്ടർ ഡോട്ട് z യൂണിറ്റ് വെക്ടർ എന്തെന്നാൽ xy പ്ളേനിൽ ഈ വെക്റ്ററുകൾ പോസിറ്റീവ് z ദിശയിലാണ് ഞാൻ കൌണ്ടർ ക്ലോക്ക്വൈസ് d xd y യിൽ പോകുന്നത് കാരണം ഇത് എനിക്ക് യൂണിറ്റ് വൃത്തത്തിന്റെ ഏരിയ നൽകുന്നു അതിനാൽ ഇത് മൈനസ് പൈ ആർ സ്ക്വയർ മൈനസ് രണ്ട് പൈ ആണ് അതാണ് A ഡോട്ട് ds ന്റെ ഇന്റഗ്രൽ കേൾ നമുക്കിപ്പോൾ ലൈൻ ഇന്റഗ്രൽ കണക്കാക്കാം ലൈൻ ഇന്റെഗ്രേലിനു വേണ്ടി ഞാനിത് ഒരു യൂണിറ്റ് വൃത്തത്തിനാണ് ചെയ്യുന്നത് A എന്നത് 2 y x ആണ് എനിക്കിത് ഇങ്ങനെ എഴുതാം2y എന്നത് സൈൻ ഫൈ യൂണിറ്റ് വെക്ടർ തന്നെയാണ് ഇപ്പോൾ നാം നേരത്തെ കണ്ടു സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റിലെ s യൂണിറ്റ് വെക്ടർ എന്നത് x കോസൈൻ ഫൈ പ്ലസ് y സൈൻ ഫൈ തന്നെയാണ് കൂടാതെ ഫൈ യൂണിറ്റ് വെക്ടർ എന്നത് മൈനസ് x സൈൻ ഫൈ പ്ലസ് y യൂണിറ്റ് വെക്ടർ കോസൈൻ ഫൈ ആണ് അതിനാൽ എനിക്ക് x യൂണിറ്റ് വെക്ടർ എന്നത് s കോസ് ഫൈ മൈനസ് ഫൈ യൂണിറ്റ് വെക്ടർ സൈൻ ഫൈ എന്ന് എഴുതാം അപ്പോൾ A യെ എനിക്ക് 2 സൈൻ ഫൈ കോസൈൻ ഫൈ s മൈനസ് സൈൻ ഫൈ ഫൈ A ഡോട്ട് dl എന്ന് എഴുതാം dl എന്നത് ഫൈ യൂണിറ്റ് വെക്ടർ ഗുണം d ഫൈ ആണെന്ന് നാം നേരത്തെ കണ്ടു ഞാൻ അത് ചെയ്തോ എന്ന് ഞാൻ പരിശോധിക്കട്ടെ അതെ ഇവിടെ തീർച്ചയായും ഞാനത് ചെയ്തു അപ്പോൾ A ഡോട്ട് dl എന്നത് ഇന്റഗ്രൽ 0 ടു 2 പൈ രണ്ട് സൈൻ ഫൈ ഗുണം മൈനസ് സൈൻ ഫൈ d ഫൈ അതായത് മൈനസ് രണ്ട് ഇന്റഗ്രൽ 0 ടു 2 പൈ സൈൻ സ്ക്വയർ ഫൈ d ഫൈ ഇത് നിങ്ങൾക്ക് മൈനസ് രണ്ട് പൈ എന്ന ഉത്തരം നൽകുന്നു